ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ II പാർട്ട് 8 പ്രൊഡക്ഷൻ ഓഫ് പ്ലെയിൻസ് ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ മൊഡ്യൂൾ നമ്പർ 4 പ്രഭാഷണ നമ്പർ 38 Module number 4 Lecture number 38 ആണ് കാണാൻ പോകുന്നത് ഇതിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെക്കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ചും പ്ലെയിനുകളുടെ പ്രൊജക്ഷൻ ദ്വിമാന വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഈ വ്യൂകൾ എങ്ങനെ ദൃശ്യവൽക്കരിക്കാം എന്നതിനെ കുറിച്ച് നമുക്കു കാണാം

കഴിഞ്ഞ ക്ലാസുകളിൽ പ്ലെയിനുകളുടെ പ്രൊജക്ഷനുകളെ പറ്റി നമുക്കു കൂടുതൽ നോക്കി പ്രത്യേകിച്ചും ഒരു ദീർഘചതുരം ഉണ്ടെങ്കിൽ ആ ദീർഘചതുരം X ആക്സിസ് Y ആക്സിസ് എന്നിവ ഉപയോഗിച്ച് ഒരു പ്രത്യേക രീതിയിൽ പുനക്രമീകരിക്കുകയാണെങ്കിൽ ഈ വ്യൂകൾ എങ്ങനെ നിർമ്മിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ത്രികോണങ്ങളെക്കുറിച്ച് കൂടുതലറിയും ഉദാഹരണത്തിന് ഒരു സെറ്റ് സ്ക്വയർ തിരശ്ചീന തലത്തിലും ലംബ തലത്തിലും ഉപയോഗിച്ച് പുനക്രമീകരിക്കുകയാണെങ്കിൽ അവ എങ്ങനെ കാണപ്പെടും ഉദാഹരണത്തിന് നമുക്ക് 30 ഡിഗ്രി 60 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കോമ്പിനേഷൻ അതായതു ഒരു ആംഗിൾ 90 ഡിഗ്രി മറ്റൊന്ന് 30 ഡിഗ്രി മറ്റൊന്ന് 60 ഡിഗ്രി നീളമുള്ള സെറ്റ് സ്ക്വയർ ഇവിടെ ഉപയോഗിക്കുന്നു ഈ സെറ്റ് സ്ക്വയർ നമ്മുടെ ലളിതവൽക്കരണത്തിനുള്ള ഒരു ദ്വിമാന വസ്തുവാണ് ഏറ്റവും ദൈർഘ്യമേറിയ വശത്തിന് 100 മില്ലീമീറ്റർ നീളം അല്ലെങ്കിൽ 10 സെന്റീമീറ്ററുമുണ്ടെങ്കിൽ അതിന്റെ ദൈർഘ്യമേറിയ വശം ലംബ തലത്തിൽ സ്ഥിതി ചെയുകയും ഉപരിതലം ലംബ തലത്തിലേക്ക് 45 ഡിഗ്രി ചരിഞ്ഞിരിക്കുകയും കൂടാതെ 30 ഡിഗ്രി തിരശ്ചീന തലത്തിലേക്ക് ചെരിഞ്ഞതുമാണെന്ന് കരുതുക അതിന്റെ പ്രോജെക്ഷൻസ് എങ്ങനെ വരക്കാം എന്ന് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് നമുക്കു ഉള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ സെറ്റ് സ്ക്വയറാണിത് ഈ ദൈർഘ്യമേറിയ വശം ലംബ തലത്തിലാണ് രണ്ടാമത്തെ കാര്യം തിരശ്ചീന തലത്തിലേക്ക് 30 ഡിഗ്രി ചെരിഞ്ഞതാണ് അതിനാൽ തിരശ്ചീന തലം ഈ ലംബ ദിശയിൽ ആയിരിക്കും ഉള്ളത് അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ ദിശയിൽ 30 ഡിഗ്രി അല്ലെങ്കിൽ ഈ രീതിയിൽ 30 ഡിഗ്രി വിന്യസിക്കണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതു പോലെ ഏറ്റവും ദൈർഘ്യമേറിയ വശം ലംബ തലത്തിലാണ് തിരശ്ചീന തലം ഉപയോഗിച്ച് 30 ഡിഗ്രി കോണാണ് നിർമ്മിക്കുന്നത് അതിനാൽ ഞാൻ അത് തിരശ്ചീന തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മുഴുവൻ ഉപരിതലവും ഇപ്പോൾ ലംബ തലത്തിലേക്ക് ലംബമായി മാറുന്നത് കാണാം എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ ദിശയിൽ 45 ഡിഗ്രി ചെരിവ് ഉണ്ടാക്കുകയാണെങ്കിൽ ടോപ്പ് സൈഡ് പ്ലെയിൻസ് പോലുള്ള പ്രൊജക്റ്റ് പ്ലെയിനുകളിൽ ഇത് എങ്ങനെ കാണപ്പെടും അതിനാൽ അതാണ് നമ്മൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ഇത് പടിപടിയായി നോക്കാം ഒന്നാമതായി ഈ മുഴുവൻ സെറ്റ് സ്ക്വയറും റൈറ്റ് പെർപെൻഡിക്കലർ പ്ലെയിൻലേക്ക് വീണ്ടും വിന്യസിക്കണം നമ്മുടെ പ്രശ്ന പ്രസ്താവന ലംബ തലത്തിലാണ് സെറ്റ് സ്ക്വയർ ലംബ തലത്തിലേക്ക് 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നു തുടർന്ന് അത് 45 ഡിഗ്രി ഫ്ലിപ്പുചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ പ്രശ്നവും നമുക്ക് ഒന്ന് തിരിച്ചു ചിന്തിച്ചാലോ ആദ്യം അതിനെ 45 ഡിഗ്രി ഫ്ലിപ്പുചെയ്ത് 30 ഡിഗ്രി പിന്നിലേക്ക് തിരിക്കുക അവിടെ നിന്ന് ശേഷിക്കുന്ന വ്യൂകൾ നിർമ്മിക്കാനുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം അതിനായി നമ്മൾ ഒരു X Y ലൈൻ വരയ്ക്കാൻ ശ്രമിക്കുന്നു ലംബ തലത്തിൽ സെറ്റ് സ്ക്വയറിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ഭാഗം കിടക്കുന്നു അതിനാൽ നമ്മൾ ആദ്യം അത് നിർമ്മിക്കുന്നു ഇത് 90 ഡിഗ്രി ആംഗിൾ ആണ് ഇത് 60 ഡിഗ്രിയും ഒരു 30 ഡിഗ്രിയും ആണ് ഫ്രണ്ടൽ പോയിന്റിലെ a'b'c' എന്നിവ കണ്ടെത്തുക ഇവയ്ക്ക് എല്ലായ്പ്പോഴും പ്രൊജക്ഷനുകൾ താഴേയ്ക്കു ആയിരിക്കും ഈ പോയിൻറ് താഴെയായിരിക്കും ടോപ് വ്യൂവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടൽ പ്ളെയിൻ വളരെ നേർത്ത സ്ട്രിപ്പ് പോലെ കാണപ്പെടുന്നു അവിടെ a b a b പോയിന്റുകളുമായി കൂട്ടിമുട്ടുന്നു അതുപോലെ ഈ c' പോയിന്റ് c യിലേക്ക് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു അതിനാൽ നമ്മൾ കാണാൻ പോകുന്ന യഥാർത്ഥ നീളം ഈ പ്രൊജക്റ്റ് നീളമാണ് അതായത് നമ്മൾ അതിനെ ടോപ് വ്യൂവിൽ കാണാൻ പോകുന്നു ഇപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു ഇതാണ് ഈ പ്ലെയിനിന്റെ ഫ്രണ്ടൽ വ്യൂ നമ്മൾ a c യുടെ ദിശയിലേക്ക് നോക്കുമ്പോൾ ഉപരിതലത്തിൽ 45 ഡിഗ്രി VP യിലേക്ക് ചരിഞ്ഞതായി കാണാം അങ്ങനെയാണെങ്കിൽ ലംബ തലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചായ്വ് ഉണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാനോ തിരശ്ചീന തലത്തിൽ മാത്രം നിരീക്ഷിക്കാനോ കഴിയും അങ്ങനെയാണെങ്കിൽ ഇതാണ് a b രേഖ അതേ രേഖയുടെ തിരശ്ചീന തലം ഉപയോഗിച്ച് 45 ഡിഗ്രി കോണാക്കി മാറ്റുന്നു ടോപ് വ്യൂവിൽ ലംബമായ തലം ഉപയോഗിച്ച് നമുക്ക് ഈ ഇൻക്ക്ളിനേഷൻ ആംഗിൾ നിരീക്ഷിക്കാൻ കഴിയും അങ്ങനെ a പോയിന്റ് b പോയിന്റ് c പോയിന്റ് എന്നിവ നമുക്ക് വരയ്ക്കാൻ കഴിയും ഇപ്പോൾ മുഴുവൻ ab ലൈനുകളും c ലൈനും വീണ്ടും പ്രൊജക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ മുഴുവൻ c പോയിന്റുകളും a പോയിന്റുകളും b പോയിന്റുകളും വീണ്ടും പ്രോജക്ട് ചെയ്യുക b b' ഇന്റർസെക്ഷൻ പോയിന്റുകൾ ഇതാണ് a a' ഇന്റർസെക്ഷൻ പോയിന്റ് നമുക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ c c' പ്രൊജക്ഷൻ ഇത് പോലെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതിനാൽ ഇപ്പോൾ ഈ പോയിന്റുകളെ a1 b1 c1എന്ന് വിളിക്കാം ലംബ തലം ഉപയോഗിച്ച് നമ്മൾ നിർമ്മിച്ച ആദ്യത്തെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ ഇതാണ് അതിനുശേഷം നമുക്ക് രണ്ട് റൊട്ടേഷനുകൾ ചെയ്യണം ഒന്ന് ഈ ലംബമായ ഒന്നിനെ വിന്യസിക്കുന്നു തുടർന്ന് അതിനെ 30 ഡിഗ്രി തിരിക്കുകയും 45 ഡിഗ്രി ഫ്ലിപ്പു ചെയ്യുകയും ചെയ്യുന്നു ഇനി ഇതിന്റെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവസാനം ചെയ്ത 45 ഡിഗ്രി ഫ്ലിപ്പുചെയ്യണം അതിനുശേഷം നമ്മൾ അതിനെ 30 ഡിഗ്രി തിരിക്കണം ഇങ്ങിനെ ആയിരിക്കും നമുക്കു മുൻപോട്ടു പോകാൻ സാധിക്കുക ഇപ്പോൾ നമ്മൾ നിർമ്മിച്ച ഈ ഏറ്റവും ദൈർഘ്യമേറിയ വശം 30 ഡിഗ്രി കറക്കേണ്ടതുണ്ട് അതിനാൽ ഈ നീളം a1 a 1 a 1 b 1 b 1 എന്നിവയാണ് നമ്മൾ സൂക്ഷിക്കാൻ പോകുന്ന അതേ നീളം ഒന്നുകിൽ ഇത് 60 ഡിഗ്രി തിരിയണം അല്ലാത്തപക്ഷം a1 b1 അവിടെ 30 ഡിഗ്രി വരെ തിരിക്കണം ആ വസ്തു തിരിക്കുമ്പോൾ a1 പോയിന്റ് ഇവിടെ മാപ്പ് ചെയ്യപ്പെടുന്നു ആ b1 പോയിന്റ് ഇതിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്നു നമുക്ക് a1 മുതൽ c1 വരെ ലഭിക്കും b1' മുതൽ c1' വരെ ഉള്ള ആർക്ക് കൊണ്ട് ഈ c1' നിർമ്മിക്കാൻ കഴിയും ഈ വസ്തുവിനെ നമ്മൾ വീണ്ടും തിരിക്കുന്ന രീതിയാണിത് അതിനാൽ ഇപ്പോൾ അവസാന ഘട്ടം ഈ a1 മുഴുവനായും പ്രൊജക്റ്റുചെയ്യുന്നു കാരണം ഈ സെറ്റ് സ്ക്വയർ ഒരു ലംബ തലത്തിൽ ആയിരിക്കേണ്ടതാണ് അതിനാൽ ഏറ്റവും ദൈർഘ്യമേറിയത് എല്ലായ്പ്പോഴും ഈ ലംബ തലത്തിൽ സ്പർശിക്കുന്നു അതിനാൽ ഈ ഘട്ടത്തിൽ a1 ഈ X ആക്സിസിലും b1' ഈ പോയിന്റിലും കണ്ടുമുട്ടുന്നു VP യുമായി 45 ഡിഗ്രി ഉണ്ടാക്കേണ്ടതിനാൽ ഈ c1 താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക അതിനാൽ ആ പ്രൊജക്ഷൻ ആണ് നമ്മുടെ c1 നെ നിർണ്ണയിക്കുന്നന്നത് ഈ c1 പോയിന്റ് b1 പോയിന്റ് c1 പോയിന്റ് ഇവിടെ ലഭിക്കുന്നു ഈ വസ്തുക്കൾക്കായി റൊട്ടേഷൻ ഉണ്ടാക്കുന്ന രീതി ഇതായിരിക്കും ഇത് നമ്മുടെ ഷീറ്റിൽ നിർമ്മിക്കാം ഒന്നാമതായി ഡ്രോയിംഗ് ഷീറ്റിൽ ഒരു തിരശ്ചീന രേഖ X Y അക്ഷം നിർമ്മിക്കുക ഇതാണ് X Y അക്ഷം ആ അക്ഷത്തിൽ 100 മില്ലീമീറ്റർ നീളമുള്ള വശം ഉപയോഗിക്കണം അതിനാൽ മുകളിൽ 100 മില്ലീമീറ്ററിൽ നിന്ന് എവിടെയെങ്കിലും ആരംഭിക്കാൻ നമുക്ക് ഒരു വിടവ് വിടാം ഇത് 1 2 3 4 5 6 7 8 9 10 ഉം ഇവിടെ നിർമ്മിക്കുന്നു ഈ പോയിന്റിന് a എന്നും ലംബ തലത്തിൽ b' എന്ന് പേരിടുക നമുക്ക് ഒരു ആംഗിൾ അറിയാം 30 ഡിഗ്രി മറ്റൊന്ന് 60 ഡിഗ്രിയാണ് അതിനാൽ ഇതിൽ യോജിപ്പിച്ച് നമുക്ക് 30 ഡിഗ്രി ആംഗിൾ നിർമ്മിക്കാം മറ്റൊരു ആംഗിൾ 30 ഡിഗ്രി ഉണ്ടാക്കണം അതിനാൽ 30 ഡിഗ്രി എന്നതിനർത്ഥം ഇവിടെ ഇപ്പോൾ ഈ പോയിന്റുകളിൽ യോജിപ്പിക്കുക മറ്റൊന്ന് 60 ഡിഗ്രി ഉണ്ടാക്കുന്നു ഇവിടെ ഇത് ഒരു സമീകൃത ത്രികോണമല്ല അതിനാൽ നിങ്ങൾ എവിടെയെങ്കിലും 60 ഡിഗ്രി ഉണ്ടാക്കണം അതിനാൽ ഈ രേഖകൾ യോജിപ്പിക്കുക ഇതാണ് നമ്മുടെ ത്രികോണം നമുക്ക് c എന്ന് വിളിക്കാം ഇതിൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ടോപ് വ്യൂവിൽ നമ്മുടെ പ്രൊജക്ഷന്റെ ദൈർഘ്യമായിരിക്കും ഇത് അതിനാൽ ഇതിനെ ab പോയിന്റും എന്ന് വിളിക്കാം c പോയിന്റും അവിടെ മാപ്പ് ചെയ്യുന്നു ഇപ്പോൾ അതേ XY പ്ലെയിനിൽ 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന a b ലൈനിൽ ഇത് സ്പർശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അക്ഷത്തിൽ തന്നെ 45 ഡിഗ്രിയിൽ ഇത് നിർമ്മിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് എവിടെയെങ്കിലും ഒരു പോയിന്റ് തിരഞ്ഞെടുക്കുക ഈ ഘട്ടത്തിൽ a b പോയിന്റ് അത് ലംബ തലത്തിൽ 45 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കേണ്ടതാണ് അതിനാൽ നമുക്കു ഇവയെ യോജിപ്പിക്കാം ഈ നീളം a c ലേക് കൈമാറുക ഈ നീളം കൈമാറുകയും ഈ രേഖകളെ ബന്ധിപ്പിക്കുകയും വേണം ഇത് 45 ഡിഗ്രി ആംഗിൾ ആണ് ഈ പോയിന്റ് c ആണ് ഇപ്പോൾ ഈ പോയിന്റുകളെല്ലാം പ്രൊജക്ഷൻ കൈമാറുക അതുപോലെ ഈ c പോയിന്റും ഇവിടെ പ്രൊജക്റ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഈ c പോയിന്റും a പോയിന്റും പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയും c പോയിന്റ് c ആക്സിസും a പോയിന്റ് a ആക്സിസിലും കട്ട് ചെയുന്നു അതിനാൽ ഇപ്പോൾ പുതിയ നൊട്ടേഷൻ ഇത് a1 ആണ് ഇത് c1 ആണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിനെ ലോക്കസ് എന്ന് വിളിക്കുന്നു ഇതാണ് പ്രൊജക്ഷൻ അതിനാൽ ലോക്കസ് പോയിന്റ് ഇവിടെ b1 ആണ് നമുക്കു ഈ പോയിന്റുകൾ യോജിപ്പിക്കാം ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് a 1 c a 1 b 30 ഡിഗ്രി ആംഗിൾ ആക്കി മാറ്റണം

ഇവിടെ നിന്ന് നമ്മൾ ഒരു 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കും ഈ ലൈനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആയിട്ടു അങ്ങേയറ്റത്തെ പോയിന്റ് പരിഗണിക്കാം അതിനാൽ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇത് 30 ഡിഗ്രി ഉണ്ടാക്കുന്നുവെന്ന് കരുതുക നമുക്ക് ഈ a1'b1 യോജിപ്പിക്കാം ഈ ദൈർഘ്യം എന്തുതന്നെയായാലും മാപ്പ് ചെയ്യേണ്ടതാണ് അതിനാൽ b1 a1 പോയിന്റുകൾ ഇവിടെയുണ്ട് ഈ ദൂരം ലൈനുകൾ തമ്മിൽ കൈമാറുന്നതിലുടെ c1 പോയിന്റ് സമാനമായിരിക്കും ഇപ്പോൾ നമുക്കു പ്രോജെക്ഷൻസ് നോക്കാം a1 അവിടെയാണ് c1 അവിടെയാണ് b1 അവിടെയാണ് ഇത് ലംബ തലത്തിൽ ആണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത് അതിനാൽ ഇത് b1 ലേക്ക് മാപ്പുചെയ്യുന്നു ഈ പോയിന്റ് a1 ലേക്ക് മാപ്പുചെയ്യുന്നു കൂടാതെ c യിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഈ ലൈൻ ലോക്കസായി മാപ്പ് ചെയ്യുന്നു നമ്മൾ ഈ രേഖകൾ യോജിപ്പിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ ഫ്രന്റ് വ്യൂവും ടോപ് വ്യൂവും ആണ് ഇത് ഉദാഹരണത്തിന് നമുക്ക് ഈ സെറ്റ് സ്ക്വയർ ഉണ്ടെങ്കിൽ അതിന്റെ ലംബ തലം ഈ വസ്തുവാണെന്ന് കരുതുന്നു ഇത് ലംബ തലം തിരശ്ചീന തലം എന്നിവയാണെങ്കിൽ സെറ്റ് സ്ക്വയറിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ വശം ഇതാണ് ഇത് ലംബ വശത്ത് വിന്യസിച്ചിരിക്കുന്നു തുടക്കത്തിൽ അത് 90 ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾക്കത് ഒരു ലൈൻ പോലെ മാത്രമേ കാണാനാകൂ അതിനുശേഷം നമുക്ക് അതിനെ 30 ഡിഗ്രി ആംഗിൾ ആക്കി മാറ്റാൻ കഴിയും തുടർന്ന് അപ്പോൾ സ്ക്വയർ ഇത് പോലെ കാണപ്പെടുന്നു അതിനുശേഷം നമ്മൾ അതിനെ 45 ഡിഗ്രി ഫ്ലിപ്പുചെയ്യുകയാണെങ്കിൽ അതും നമുക്കു മനസ്സിലാക്കാൻ പറ്റും അതിനാൽ ഫ്രണ്ട് വ്യൂവിൽ കാണപ്പെടുന്നത് പോലെ സ്കൂവ്ഡ് ത്രികോണമാണ് ഇപ്പോൾ ടോപ് വ്യൂവിൽ അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്കു കാണാൻ കഴിയുന്നത് സെറ്റ് സ്ക്വയറിന്റെ ടോപ് വ്യൂ ആണ് ഇവിടെ നമ്മൾ കാണുന്ന ടോപ്പ് വ്യൂവും ആ ഫ്രണ്ട് വ്യൂവും അവിടെ കാണുന്നു നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം ഒരു ത്രികോണത്തിനുപകരം ഈ അടുത്ത ഉദാഹരണത്തിൽ നമ്മൾ ഒരു പെന്റഗൺ നോക്കുകയാണ് അതിനാൽ ഇത് 30 മില്ലീമീറ്റർ വശമുള്ള ഒരു പെന്റഗൺ ആണ് ഒരു വശം തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്നു അതിന്റെ ഒരു വശത്ത് 45 ഡിഗ്രി തിരശ്ചീന തലത്തിലേക്ക് ചരിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ HP യിലെ ഈ വശം ലംബ തലത്തിൽ 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പ്രോജെക്ഷൻസ് വരയ്ക്കുക അതിനാൽ നമുക്ക് ഇതിന്റെ പരിഹാരം നോക്കാം 30 മില്ലീമീറ്റർ വശങ്ങളുള്ള സാധാരണ പെന്റഗൺ ഇതാണ് ഈ വൃത്തത്തിൽ നിന്ന് ഒരു പെന്റഗൺ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഒരു സർക്കിൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സെമി സർക്കിൾ രീതി പോലെ മറ്റൊരു വഴിയിലും നമുക്ക് ഈ പെന്റഗൺ നിർമ്മിക്കാൻ കഴിയും മറ്റൊരു വഴി ഈ രണ്ട് വശങ്ങൾ തമ്മിലുള്ള ആംഗിൾ അറിയുന്നതിലൂടെയും നമുക്ക് ഈ പെന്റഗൺ നിർമ്മിക്കാൻ കഴിയും ഇപ്പോൾ അതിന്റെ വശങ്ങൾ HP യിൽ വിശ്രമിക്കുന്നു അതിന്റെ ഒരു വശം 45 ഡിഗ്രി HP യിലേക്കും ചായുന്നു ഫ്രന്റ് വ്യൂവിൽ ഇത് 45 ഡിഗ്രി ഉണ്ടാക്കുന്നു ഇത് തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ ഹെക്സഗൺ കാണുന്നു പെന്റഗൺ പൂർണ്ണമായും തിരശ്ചീന തലത്തിൽ വിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും അനുയോജ്യമായ രീതിയിൽ അരികുകളിൽ ഒന്ന് തിരിക്കുന്നതിലൂടെ നമുക്ക് 45 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി 60 ഡിഗ്രി തുടങ്ങിയവ നിർമിക്കാൻ സാധിക്കും അതിനാൽ ടോപ് വ്യൂ അത് അങ്ങനെയായിരിക്കും ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത് b പോയിൻറ് c പോയിൻറ് d പോയിൻറുകൾ യഥാക്രമം ഈ b'c'd' എന്നിവയിലേക്ക് മാപ്പുചെയ്യുന്ന ഒരു രേഖയായിരിക്കും അതിനാൽ ആദ്യം ഈ പെന്റഗൺ നിർമ്മിക്കുക അതിനുശേഷം പ്രോജക്ട് ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് ദൈർഘ്യം ലഭിക്കും ആ പ്രൊജക്റ്റ് ദൈർഘ്യം ലഭ്യമായുകഴിഞ്ഞാൽ നമ്മൾ അതേ പ്രൊജക്റ്റ് ദൈർഘ്യം ഉപയോഗിക്കുന്നു പക്ഷേ 45 ഡിഗ്രി അതിന്റെ വശങ്ങളിലൊന്ന് തിരശ്ചീന തലത്തിലേക്ക് ചായ്ക്കുന്നു തിരശ്ചീന തലത്തിലേക്ക് ചെരിഞ്ഞ എന്തും നമുക്ക് ലംബ തലത്തിൽ കാണാനാകും അതിനാൽ ലംബ തലത്തിൽ നമുക്ക് 45 ഡിഗ്രി ഉണ്ട് അത് വരച്ചു കഴിഞ്ഞാൽ a പോയിന്റ് b പോയിന്റുകൾ c പോയിന്റ് e പോയിന്റ് d പോയിന്റ് എന്നിവ പ്രോജക്ട് ചെയ്യുകയും യഥാക്രമം ab'c'd' പോയിന്റുകൾ എന്നിവയിലേക്ക് മാപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് a പോയിന്റ് a' പോയിന്റ് ആയി പൊജെക്ട് ചെയ്യപ്പെടുന്നു b യുടെ മൂല്യത്തിന് അനുസരിച്ചു b' പോയിന്റ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു ഈ രീതിയിൽ ഈ പെന്റഗൺ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും 45 ഡിഗ്രി റൊട്ടേഷനുശേഷം നമ്മൾ ഫ്രണ്ട് വ്യൂവും ടോപ് വ്യൂവും നിർമിച്ചു ഇപ്പോൾ നമുക്കു ഈ സൈഡ് അലൈൻ ചെയ്യാം അത് ae1 ആകാം അല്ലെങ്കിൽ a1 b1 വശങ്ങളും ആകാം അതിനാൽ VP യുമായി എന്തെങ്കിലും ആംഗിൾ ഉണ്ടാക്കുന്ന ലംബമായ തലത്തിനു സമീപമുള്ള ആ വശത്തെക്കുറിച്ച് നിങ്ങളുടെ ആശയം എന്താണ് തിരശ്ചീന പ്ലെയിനിൽ അത് അലൈൻ ആകുന്നത് നമുക്കു കാണാൻ സാധിക്കും അതിനാൽ നമ്മൾ അത് എടുക്കാൻ പോകുന്ന a1 b1 വശം പരിഗണിക്കാം അതിനെ തിരശ്ചീന തലത്തിൽ നിന്ന് 30 ഡിഗ്രി കോണിൽ വിന്യസിക്കുക ഈ നീളം a1b1 ഇവിടെ കൈമാറുക അതുപോലെ കോമ്പസ് ഉപയോഗിച്ച് a1 e1 നീളം കൈമാറാൻ കഴിയും b 1 c 1 c 1 d 1 എന്നിവയും അതേ രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു അതിനായി നമ്മൾ ഇത് 30 ഡിഗ്രി തിരിക്കണം ശേഷിക്കുന്ന വശങ്ങളും അതേ അളവിൽ തിരിക്കും അത് ചെയ്തുകഴിഞ്ഞാൽ ഈ പെന്റഗൺ മുഴുവൻ ആ ദിശയിലേക്ക് മാറും ഒരിക്കൽ ചെയ്തുകഴിഞ്ഞാൽ ഈ രേഖകൾ e c a bc എന്നിവയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുക ഇതിനകം നമ്മൾ 45 ഡിഗ്രി ആയി ലംബ തലത്തിൽ തിരിക്കുന്നു അതിലൂടെ തിരശ്ചീന തലത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് കാണാനാകും ആ ലോക്കസ് പോയിന്റിൽ a a1 മായി ഇന്റർസെക്റ്റു ചെയ്യുന്നു അതിനെ നമുക്ക് a1' എന്ന് വിളിക്കാം അത് പോലെ തന്നെ b b1 മായി ഇന്റർസെക്റ്റു ചെയുന്ന പോയിന്റിനെ b1' എന്നും വിളിക്കാം c1 d1 പോയിന്റ്സും ഇതുപോലെ തന്നെ നമുക്ക് ലഭിക്കും ഇവയെല്ലാം തമ്മിൽ യോജിപ്പിച്ച് നമുക്ക് ഒരു 45 ഡിഗ്രി തിരശ്ചീന പ്ലെയിനിലേക്കും ഒരു വശം 30 ഡിഗ്രി ലംബ പ്ലെയിനിലേക്കും തിരിഞ്ഞു ഇരിക്കുന്ന ഒരു പെന്റഗൺ ലഭിക്കും അതിനാൽ അടുത്ത ക്ലാസ്സിൽ ഈ സെക്ഷൻ പ്ലെയിനിനെ കുറിച്ച് വ്യത്യസ്ത വസ്തുക്കളിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം പ്രത്യേകിച്ചും ഓക്സിലറി പ്ലെയിൻസ് നിർമ്മാണത്തിൽ ഈ വ്യൂ കാണാനാകും എന്നത് അടുത്ത ക്ലാസിൽ നമ്മൾ കാണും